നമസ്കാരം കഴിഞ്ഞ രണ്ട് സെഷനുകളിൽ z പാരാമീറ്ററുകളെയും y പാരാമീറ്ററുകളെയും കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു Z പാരാമീറ്ററുകളുടെ കാര്യത്തിൽ രണ്ട് പോർട്ടുകളിലെ വോൾട്ടേജുകളായ എന്നിവയ്ക്കുള്ള ബന്ധം നമ്മൾ കറന്റുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചു y പാരാമീറ്ററുകളുടെ കാര്യത്തിൽ ഇരുവശങ്ങളിലുമുള്ള കറന്റുകൾക്കുള്ള ബന്ധം നമ്മൾ വോൾട്ടേജുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെടുത്തുന്നു ഇപ്പോൾ മൂന്നാമത്തെ അവസ്ഥ വോൾട്ടേജും കറന്റും ഒരു ആശ്രിത ഘടകമാകുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകാം അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും അത് ഇന്നത്തെ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പുതിയ സെറ്റ് പാരാമീറ്ററുകൾ നൽകും ഇന്നത്തെ പ്രഭാഷണത്തിന്റെ ചർച്ച നമുക്ക് ആരംഭിക്കാം ഇന്നത്തെ സെഷനിൽ ഹൈബ്രിഡ് പാരാമീറ്ററുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും നമ്മൾ z y പാരാമീറ്ററുകൾ കണ്ടു പക്ഷേ രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ z y പാരാമീറ്ററുകൾ കണ്ടെത്തുന്നതിന് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഒരു വഴക്കം ഉണ്ടായിരിക്കണമെന്നില്ല മറ്റൊരു കൂട്ടം പാരാമീറ്ററുകൾ വികസിപ്പിക്കേണ്ടതുണ്ട് അതിൽ നിങ്ങൾക്ക് എന്നിങ്ങനെ ആശ്രിത വേരിയബിളുകൾ ഉണ്ടായിരിക്കാം സ്വതന്ത്ര വേരിയബിളുകൾ എന്നിവ ആയിരിക്കും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങൾ കൂടുതലും ട്രാൻസിസ്റ്ററുകൾ പോലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ കാണും ട്രാൻസിസ്റ്ററുകളുടെ കാര്യത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ h പാരാമീറ്ററുകൾ കണക്കിലെടുത്ത് നമ്മൾ ട്രാൻസിസ്റ്ററിന്റെ തുല്യമായ മാതൃക വികസിപ്പിച്ചെടുത്തു അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഇന്നത്തെ സെഷനിൽ ചർച്ച ചെയ്യുന്ന h പാരാമീറ്റർ വേരിയബിളുകൾ ഉപയോഗിക്കാം ഇപ്പോൾ അത്തരം ഉപകരണങ്ങളുടെ h പാരാമീറ്ററുകൾ പരീക്ഷണാത്മകമായി അളക്കുന്നത് വളരെ എളുപ്പമാണ് തുടർന്ന് അവയുടെ z y പാരാമീറ്ററുകൾ അളക്കുക അതിനാലാണ് h പാരാമീറ്ററുകൾ കണക്കാക്കുന്നതിൽ നമുക്ക് കൂടുതൽ താൽപ്പര്യമുള്ളത് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഉത്കൃഷ്ട മാതൃക ട്രാൻസ്ഫോർമറുകളുടെ കാര്യത്തിൽ നമുക്ക് ആ സർക്യൂട്ടിനായി z പാരാമീറ്ററുകൾ സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ചർച്ച ചെയ്തു എന്നാൽ ഈ സാഹചര്യത്തിൽ ഉത്കൃഷ്ട മാതൃക ട്രാൻസ്ഫോർമർ ഹൈബ്രിഡ് പാരാമീറ്ററുകൾ ഉപയോഗിച്ച് വിവരിക്കാം ഇപ്പോൾ ടെർമിനൽ വോൾട്ടേജുകളും കറന്റുകളും തമ്മിലുള്ള ബന്ധത്തെ നമ്മൾ എങ്ങനെ നിർവചിക്കും h പാരാമീറ്ററുകളുടെ കാര്യത്തിൽ ഇൻപുട്ട് പോർട്ട് വോൾട്ടേജായ ഇൻപുട്ട് പോർട്ട് കറന്റും ഔട്ട്പുട്ട് പോർട്ട് വോൾട്ടേജുമായി ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കും അതുപോലെ ഔട്ട്പുട്ട് പോർട്ട് കറന്റ് ആയ ഇൻപുട്ട് പോർട്ട് കറന്റും ഔട്ട്പുട്ട് പോർട്ട് വോൾട്ടേജുമായി ഒരു ബന്ധമുണ്ടായിരിക്കും h പാരാമീറ്ററുകൾ കണ്ടെത്തുന്നതിനുള്ള രണ്ട് അടിസ്ഥാന സമവാക്യങ്ങൾ ഇവയാണ് ഇപ്പോൾ മാട്രിക്സ് രൂപത്തിൽ നമ്മൾ എങ്ങനെ പ്രതിനിധീകരിക്കും അതിനാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകും ചുരുക്കത്തിൽ ആശ്രിത വെക്റ്റർ ആയ ഇൻപുട്ടിനെ നമുക്ക് സ്വതന്ത്ര വെക്റ്ററും h പാരാമീറ്റർ മാട്രിക്സും തമ്മിലുള്ള ഗുണനത്തിന് തുല്യമായി അവതരിപ്പിക്കാൻ കഴിയുമെന്ന് പറയാൻ കഴിയും ഇപ്പോൾ h പദങ്ങൾ ഈ കേസിൽ ഹൈബ്രിഡ് പാരാമീറ്ററുകൾ അല്ലെങ്കിൽ h പാരാമീറ്ററുകൾ എന്നറിയപ്പെടുന്നു എന്തുകൊണ്ടാണ് അവയെ ഹൈബ്രിഡ് എന്ന് വിളിക്കുന്നത് കാരണം ഈ സാഹചര്യത്തിൽ നമുക്ക് അനുപാതങ്ങളുടെ സംയോജനമുണ്ട് അതിനാൽ നിങ്ങൾ കണ്ടാൽ ഇതിന് ഇങ്ങനെ ബന്ധം ഉണ്ടായിരിക്കും അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളും കാണുമ്പോൾ പാരാമീറ്ററുകളിൽ ഏകതയില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കും h പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമുക്ക് ഹൈബ്രിഡ് തരത്തിലുള്ള പാരാമീറ്ററുകൾ ഇവയാണ് h പാരാമീറ്ററുകൾ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും 0 എന്ന് ക്രമീകരിച്ചുകൊണ്ട് പരാമീറ്റർ മൂല്യങ്ങൾ വിലയിരുത്താനാകും അതായത് നിങ്ങൾ ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ആയ 0 സജ്ജമാക്കി അതിനാൽ നമ്മൾ 0 സജ്ജമാക്കിയ ആദ്യ കേസ് പ്രസ്താവിക്കാം അതായത് ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആണ് അതിനാൽ ഈ രണ്ട് സമവാക്യങ്ങളിലും നിങ്ങൾ 0 സജ്ജമാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇപ്പോൾ നിങ്ങൾ 0 സജ്ജമാക്കുമ്പോഴാണ് രണ്ടാമത്തെ കേസ് ഇവിടെ നിങ്ങൾ 0 സജ്ജമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ൽ ആയി ലഭിക്കും നിങ്ങൾക്ക് ൽ ആയി ലഭിക്കും ഇപ്പോൾ ഈ പാരാമീറ്ററുകൾ അവ എന്തിനെ പ്രതിനിധീകരിക്കുന്നു ഇംപെഡൻസിനെ പ്രതിനിധീകരിക്കുന്നു കാരണം ഇത് നും നും ഇടയിലുള്ള അനുപാതമാണ് വോൾട്ടേജ് നേട്ടമാണ് കാരണം ഇത് ഉം ഉം തമ്മിലുള്ള ബന്ധമാണ് കറന്റ് നേട്ടമാണ് കാരണം ഇത് നും നും ഇടയിലുള്ള അനുപാതമാണ് അഡ്മിറ്റൻസ് ആണ് കാരണം ഇത് നും നും ഇടയിലുള്ള അനുപാതമാണ് ഇപ്പോൾ നമുക്ക് പാരാമീറ്ററായി ഇംപിഡൻസ് വോൾട്ടേജ് നേട്ടം കറന്റ് നേട്ടം അഡ്മിറ്റൻസ് എന്നിവ ഉള്ളതിനാൽ നമ്മൾ അവയെ ഹൈബ്രിഡ് പാരാമീറ്ററുകൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയും • ഷോർട്ട് സർക്യൂട്ട് ഇൻപുട്ട് ഇംപിഡൻസ് • ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് വോൾട്ടേജ് നേട്ടം • ഷോർട്ട് സർക്യൂട്ട് ഫോർവേഡ് കറന്റ് നേട്ടം • ഓപ്പൺ സർക്യൂട്ട് ഔട്ട്പുട്ട് അഡ്മിറ്റൻസ് z അല്ലെങ്കിൽ y പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമ്മൾ നിർണ്ണയിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് h പാരാമീറ്ററുകൾ നിർണ്ണയിക്കാൻ കഴിയും ഇത് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് ബന്ധങ്ങൾ h പാരാമീറ്റർ സമവാക്യങ്ങൾ ആയി എഴുതാൻ കഴിയും എന്നാണ് തുടർന്ന് നിങ്ങൾക്ക് h പാരാമീറ്ററുകൾ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും റെസിപ്രോക്കൽ സർക്യൂട്ടുകളുടെ കാര്യത്തിൽ അതിനാൽ രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ ഹൈബ്രിഡ് മോഡൽ നിങ്ങൾക്ക് ഇതുപോലെ നിർവചിക്കാം നിങ്ങൾ എങ്ങനെ നിർവചിക്കും ഇത്തരത്തിലുള്ള സർക്യൂട്ട് എങ്ങനെ വരയ്ക്കും നമുക്ക് ഉള്ള ആദ്യത്തെ സമവാക്യം കണ്ടാൽ അത് ഇതിലൂടെ ഒഴുകുന്ന കറന്റ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് കൂടാതെ നിങ്ങൾക്ക് ആശ്രിത വോൾട്ടേജ് സ്രോതസ്സ് ആയ ഉണ്ട് അതിനാൽ ഇത് ആയി മാറും ഇത് കേവലം റെസിസ്റ്ററിന്റെയും ആശ്രിത വോൾട്ടേജ് സ്രോതസ്സിന്റെയും ഒരു സീരീസ് സംയോജനമാണ് അതിനാലാണ് വോൾട്ടേജ് രീതിയിൽ നിങ്ങൾ ഇത് നിർവചിക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇത് ഒരു സമാന്തര സംയോജനമാണ് അതിനാൽ നിങ്ങൾക്ക് ഉടനടി നോഡൽ വിശകലനം ഉപയോഗിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾ കിർചോഫിന്റെ കറന്റ് നിയമം Kirchhoff's current law ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും h പാരാമീറ്ററുകൾ നിർവചിക്കാൻ നമ്മൾ തുടക്കത്തിൽ പ്രതിനിധീകരിച്ച സമാന സമവാക്യങ്ങളാണ് ഇവ രണ്ടും രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ ഹൈബ്രിഡ് മോഡൽ വരയ്ക്കുന്നതിന് സമാന സമവാക്യങ്ങൾ ഉപയോഗപ്പെടുത്താം ഇത് ഒരു പ്രത്യേക നെറ്റ്വർക്കിനായി നിങ്ങളുടെ തുല്യമായ h പാരാമീറ്റർ സർക്യൂട്ട് ആയിരിക്കും ഇപ്പോൾ h പാരാമീറ്ററുകളുമായി അടുത്ത ബന്ധമുള്ള മറ്റൊരു കൂട്ടം പാരാമീറ്ററുകൾ ഉണ്ട് അവയെ എന്താണ് വിളിക്കുന്നത് അവയെ g പാരാമീറ്റർ അല്ലെങ്കിൽ വിപരീത ഹൈബ്രിഡ് പാരാമീറ്ററുകൾ എന്ന് വിളിക്കുന്നു ഇപ്പോൾ h പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമ്മൾ ഉം ഉം തമ്മിലുള്ള ബന്ധം സ്ഥിരപ്പെടുത്തുന്നു h പരാമീറ്ററുകളുടെ കാര്യത്തിൽ എന്നിവ ആശ്രിത വേരിയബിളുകളായിരുന്നു ഇപ്പോൾ നിങ്ങൾ g പാരാമീറ്ററുകൾ നിർവചിക്കുമ്പോൾ അല്ലെങ്കിൽ h പാരാമീറ്ററുകളുടെ വിപരീതം പറയുമ്പോൾ നമുക്ക് ആശ്രിത വേരിയബിളുകൾ എന്നിവയും സ്വതന്ത്ര വേരിയബിളുകൾ എന്നിവയായിരിക്കും ഇപ്പോൾ ടെർമിനൽ കറന്റുകളും വോൾട്ടേജുകളും നിങ്ങൾ എങ്ങനെ വിവരിക്കും

ഇത് g പാരാമീറ്ററുകൾ നിർവചിക്കുന്ന മറ്റൊരു സമവാക്യമാകാം നിങ്ങൾക്ക് എങ്ങനെ മാട്രിക്സ രൂപത്തിൽ എഴുതാം നിങ്ങൾക്ക് ഒരു ആശ്രിത വേരിയബിൾ വെക്റ്ററായി എഴുതാം അതിനാൽ ഇവ h പാരാമീറ്ററുകളുടെ വിപരീതമാണെന്ന് നിങ്ങൾ കാണുന്നുവെങ്കിൽ കാരണം h പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമുക്ക് എന്നിവയെ ആശ്രിത വേരിയബിളുകളായി കണക്കാക്കി ഇവിടെ നമുക്ക് അതിന്റെ വിപരീതമാണ് അതായത് എന്നിവ ആശ്രിത വേരിയബിളുകളായി അതിനാൽ നമ്മൾ ഹൈബ്രിഡ് പാരാമീറ്ററുകളുടെ വിപരീതമായി g എന്ന് പറയും അല്ലെങ്കിൽ ചുരുക്കത്തിൽ g പാരാമീറ്ററുകൾ എന്ന് പറയും ഇപ്പോൾ g പാരാമീറ്ററുകളുടെ മൂല്യങ്ങൾ നിങ്ങൾ എങ്ങനെ കണ്ടെത്തും ഈ പാരാമീറ്ററുകളുടെ മൂല്യങ്ങൾ ഇപ്പോൾ ക്രമീകരിക്കുന്നതിലൂടെ വിലയിരുത്താൻ കഴിയും അതായത് ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്തതാണ് h പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമുക്ക് 0 ആയിരുന്നു അതായത് ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു ഇവിടെ 0 എന്നാൽ ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആണെന്നും 0 എന്നാൽ ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് എന്നും അർത്ഥമാക്കുന്നു h പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമ്മൾ 0 ആക്കുന്നു അതായത് ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ചെയ്തു ഇപ്പോൾ നിങ്ങൾ 0 ആക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ലഭിക്കും നിങ്ങൾ 0 ആക്കുകയാണെങ്കിൽ എന്നീ പാരാമീറ്ററുകൾ യഥാക്രമം ഒരു അഡ്മിറ്റൻസ് കറന്റ് നേട്ടം വോൾട്ടേജ് നേട്ടം ഒരു ഇംപിഡൻസ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഇംപിഡൻസ് വോൾട്ടേജ് നേട്ടം കറന്റ് നേട്ടം അഡ്മിറ്റൻസ് എന്നിങ്ങനെയുള്ള h പാരാമീറ്ററുകളുമായി നിങ്ങൾക്ക് അവയെ താരതമ്യം ചെയ്യാം h പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമുക്ക് ഉണ്ടായിരുന്നതിന് വിപരീതമാണ് ഇവിടെയുള്ള പരാമീറ്ററുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയും • ഓപ്പൺ സർക്യൂട്ട് ഇൻപുട്ട് അഡ്മിറ്റൻസ് • ഷോർട്ട് സർക്യൂട്ട് ഫോർവേഡ് കറന്റ് നേട്ടം • ഓപ്പൺ സർക്യൂട്ട് റിവേഴ്സ് വോൾട്ടേജ് നേട്ടം • ഷോർട്ട് സർക്യൂട്ട് ഔട്ട്പുട്ട് ഇംപിഡൻസ് z അല്ലെങ്കിൽ y പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമ്മൾ ചെയ്തതിന് സമാനമായ g പാരാമീറ്ററുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടെത്താനാകും g പാരാമീറ്റർ മോഡലായ വിപരീത ഹൈബ്രിഡ് മോഡൽ ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാം കറന്റ് സ്രോതസ്സ് റെസിസ്റ്റൻസ് എന്നിവ സമാന്തരമായതിനാൽ നിങ്ങൾക്ക് ഈ കേസിൽ നോഡൽ വിശകലനം ഉപയോഗിക്കാം കിർചോഫിന്റെ കറന്റ് നിയമം Kirchhoff's current law നിങ്ങൾ ഇവിടെ പ്രയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആശ്രിത കറന്റ് സ്രോതസ്സ് സർക്യൂട്ടിന്റെ ഈ ഭാഗത്തിന്റെ കാര്യത്തിൽ ഇത് നിങ്ങൾക്ക് ലഭിക്കും രണ്ടാം ഭാഗത്തിന്റെ കാര്യത്തിൽ റെസിസ്റ്റൻസ് ആശ്രിത വോൾട്ടേജ് സ്രോതസ്സുമായി ശ്രേണിയിലുളളതായി നിങ്ങൾക്ക് കാണാം അതിനാൽ നിങ്ങൾ കിർചോഫിന്റെ വോൾട്ടേജ് നിയമം Kirchhoff's voltage law ഉപയോഗിക്കും നിങ്ങൾ കിർചോഫിന്റെ വോൾട്ടേജ് നിയമം Kirchhoff's voltage law ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ എഴുതുന്നു ഇപ്പോൾ g പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമ്മൾ ആദ്യം സൂചിപ്പിച്ച അതേ സമവാക്യങ്ങളാണ് ഇവ രണ്ടും എന്ന് നിങ്ങൾ കാണും അതിനാൽ g പാരാമീറ്ററുകൾക്ക് തുല്യമായ സർക്യൂട്ട് വരയ്ക്കാൻ ഈ സമവാക്യങ്ങൾ ഉപയോഗിക്കാം ഇപ്പോൾ കുറച്ച് ഉദാഹരണങ്ങളുടെ സഹായത്തോടെ നമുക്ക് ഈ ആശയം മനസ്സിലാക്കാം h പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമുക്ക് ആദ്യം ഒരു ഉദാഹരണം നോക്കാം ഇവിടെ നിങ്ങൾക്ക് 2 ഓം റെസിസ്റ്റൻസും 3 ഓം റെസിസ്റ്റൻസും 6 ഓം റെസിസ്റ്റൻസും ഉള്ള ടി സർക്യൂട്ട് ഉണ്ടെന്ന് കണ്ടാൽ ഇപ്പോൾ നമ്മൾ h പാരാമീറ്ററുകൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ h പാരാമീറ്ററുകളുടെ കാര്യത്തിൽ നമ്മൾ അടിസ്ഥാന നിർവചനം ഉപയോഗിക്കും നമ്മൾ ആദ്യം h11 h21 നിർണ്ണയിക്കും നമ്മൾ ആദ്യം കറന്റ് സ്രോതസ്സ് ഇൻപുട്ട് പോർട്ടിലേക്ക് ബന്ധിപ്പിക്കും ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആക്കും അതിനാൽ പരിഷ്കരിച്ച സർക്യൂട്ട് നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന T സർക്യൂട്ട് നിങ്ങൾക്കുണ്ട് ഇപ്പോൾ നിങ്ങൾ ഔട്ട്പുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആക്കുന്നു ഈ സാഹചര്യത്തിൽ 0 എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഇൻപുട്ട് പോർട്ടിലേക്ക് കറന്റ് സ്രോതസ്സ് പ്രയോഗിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് പോർട്ട് ഈ 3 ഓം 6 ഓം റെസിസ്റ്റൻസുകൾ ഇപ്പോൾ സമാന്തരമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് എന്താണ് എഴുതാൻ കഴിയുക

ഇപ്പോൾ രണ്ടാമത്തെ കേസിൽ നിങ്ങൾ എന്തുചെയ്യണം ഇപ്പോൾ നിങ്ങൾ ഈ ഘട്ടത്തിൽ കറന്റ് വിഭജനം ഉപയോഗിക്കും അതിനാൽ 3 ഓം റെസിസ്റ്റൻസുള്ള ഈ പ്രത്യേക ഭാഗത്ത് കറന്റ് ഒഴുകുന്നത് നിങ്ങൾ കണ്ടാൽ ഇവിടെ ഒഴുകുന്ന കറന്റ് 3 ഓം 6 ഓം റെസിസ്റ്റൻസുകളിൽ വിഭജിക്കപ്പെടും അതിനാൽ കറന്റ് വിഭജനം ഉപയോഗിച്ച് ഈ പ്രത്യേക 3 ഓം റെസിസ്റ്റൻസിൽ ഒഴുകുന്ന കറന്റിന്റെ മൂല്യം എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താനാകും കറന്റ് വിഭജനം ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത് ഇതിൽ ഒഴുകുന്ന കറന്റ് മൂല്യം നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ ഇവിടെ കറന്റിന്റെ ദിശ വിപരീതമായതിനാൽ കറന്റിന്റെ മൂല്യം ആണ് നിങ്ങൾക്ക് എഴുതാം ഇപ്പോൾ അടുത്തതായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നിവയുടെ മൂല്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനാൽ നമ്മൾ എന്തു ചെയ്യും ഈ സാഹചര്യത്തിൽ ഔട്ട്പുട്ട് പോർട്ടിലേക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് ബന്ധിപ്പിക്കും നമ്മൾ ഇൻപുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ടായി സൂക്ഷിക്കും ഈ സാഹചര്യത്തിൽ 0 ആയിത്തീരും നമ്മൾ ഔട്ട്പുട്ട് പോർട്ടിലേക്ക് പ്രയോഗിക്കും ഇപ്പോൾ എന്ത് സംഭവിക്കും അതിനാൽ ഈ പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾ വോൾട്ടേജ് ഡിവിഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവയുടെ മൂല്യം നിങ്ങൾ കാണും

ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ എന്നിവ കാണുകയാണെങ്കിൽ ഈ സർക്യൂട്ട് റെസിപ്രോക്കൽ സർക്യൂട്ട് ആണെന്ന് നിങ്ങൾക്ക് ലളിതമായി പറയാൻ കഴിയും അടുത്തതായി ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന സർക്യൂട്ടിന്റെ g പാരാമീറ്ററുകൾ കണ്ടെത്താൻ നമുക്ക് ശ്രമിക്കാം ഇവിടെ സർക്യൂട്ടിൽ ഒരു ഹെൻറി ഇൻഡക്ടറും 1 ഫാരഡിന്റെ കപ്പാസിറ്ററും 1 ഓം റെസിസ്റ്റൻസും ഉണ്ടെന്ന് കാണാം s ന്റെ ഒരു ഫംഗ്ഷനായി നമ്മൾ g പാരാമീറ്ററുകൾ കണ്ടെത്തണം അതിനാൽ ഈ സർക്യൂട്ടിനെ ആദ്യം ലാപ്ലേസ് ഡൊമെയ്നിലേക്ക് എസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യണം എന്നാണ് ഇതിനർത്ഥം അതിനാൽ ആദ്യം നമ്മൾ ഇത് ലാപ്ലേസ് ഡൊമെയ്നിലേക്ക് പരിവർത്തനം ചെയ്യും അതായത് എസ് ഡൊമെയ്നിലെ 1 ഹെൻറി നമ്മൾ എസ് ആയിരിക്കും എന്ന് പറയും കപ്പാസിറ്ററിനെ 1s പ്രകാരം പ്രതിനിധീകരിക്കും റെസിസ്റ്റൻസ് അതേപടി തുടരും ഇപ്പോൾ g11 g21 എന്നിവയുടെ മൂല്യം കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യും ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് പോലെ ഇൻപുട്ട് പോർട്ടിലേക്ക് വോൾട്ടേജ് സ്രോതസ്സ് ബന്ധിപ്പിക്കും നമ്മൾ ഔട്ട്പുട്ട് പോർട്ട് ഓപ്പൺ സർക്യൂട്ട് ചെയ്യും ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കും പൂജ്യമായിരിക്കും കൂടാതെ ഇൻപുട്ട് പോർട്ടിൽ നിന്നും കറന്റ് ഒഴുകും ഇപ്പോൾ ന്റെ മൂല്യം എന്താണ് നിങ്ങൾക്ക് ലളിതമായി ഇങ്ങനെ പ്രതിനിധീകരിക്കാൻ കഴിയും അടുത്തതായി നിങ്ങൾ എന്തുചെയ്യണം വോൾട്ടേജ് ന്റെ മൂല്യം നിങ്ങൾ ന് അനുശ്രണമായി കണ്ടെത്തണം അതിനാൽ നിങ്ങൾക്ക് ഇവിടെ വോൾട്ടേജ് ഡിവിഷൻ ഉപയോഗിക്കാം 1 ഓം റെസിസ്റ്റൻസിന് കുറുകെ പ്രയോഗിക്കുന്നതിനാൽ വോൾട്ടേജ് ഡിവിഷന്റെ സഹായത്തോടെ ന്റെ രീതിയിൽ ഇത് പ്രതിനിധീകരിക്കാം അതിനാൽ നിങ്ങൾ വോൾട്ടേജ് ഡിവിഷൻ പ്രയോഗിക്കുകയാണെങ്കിൽ അടുത്തതായി നമ്മൾ എന്നിവ കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ കറന്റ് സ്രോതസ്സ് ഔട്ട്പുട്ട് പോർട്ടിലേക്ക് ബന്ധിപ്പിക്കുകയും ഇൻപുട്ട് പോർട്ട് ഷോർട്ട് സർക്യൂട്ട് ആക്കുകയും ചെയ്യും ഷോർട്ട് സർക്യൂട്ട് ആക്കുക എന്നാൽ 0 ഔട്ട്പുട്ട് ടെർമിനലിൽ കറന്റ് സ്രോതസ്സായ പ്രയോഗിക്കും ഇപ്പോൾ നമ്മൾ എന്നിവയുടെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും കറന്റ് വിഭജനം നമ്മൾ ഉപയോഗിക്കും കറന്റ് 1 ഓം റെസിസ്റ്റൻസിലൂടെയും ഇൻഡക്ടറിലൂടെയും ഒഴുകുന്നത് നിങ്ങൾ കാണുന്നുവെങ്കിൽ ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന കറന്റ് ന്റെ ഘടകം ന് തുല്യമായിരിക്കുമെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇൻഡക്ടറിലൂടെ ഒഴുകുന്ന ന്റെ ഭാഗം നാം കണ്ടെത്തണം അതിനായി നമുക്ക് കറന്റ് വിഭജനം ഉപയോഗപ്പെടുത്താം അതിനാൽ നിങ്ങൾ കറന്റ് വിഭജനം ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉം ഉം തമ്മിലുള്ള ബന്ധം കണ്ടെത്തേണ്ടതുണ്ട് ന്റെ മൂല്യം ഇപ്പോൾ ഇത് ഒരു ലളിതമായ നെറ്റ്വർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് എന്നിവ ഉള്ള നെറ്റ്വർക്ക് ലഭിക്കുകയാണെങ്കിൽ z പാരാമീറ്ററുകൾ y പാരാമീറ്ററുകൾ h പാരാമീറ്ററുകൾ അല്ലെങ്കിൽ g പാരാമീറ്ററുകൾ എന്നിവ നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം ഈ സെഷനിൽ h പാരാമീറ്ററുകളും g പാരാമീറ്ററുകളും എന്നീ രണ്ട് പ്രധാന പാരാമീറ്ററുകളെക്കുറിച്ച് നമ്മൾ ചർച്ചചെയ്തു